മുമ്പ് ഞങ്ങൾ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ചില അടിസ്ഥാന ആശയങ്ങളും ടാസ്ക് ഷെഡ്യൂളറും പരിശോധിച്ചു ഇത് ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് കാരണം ഒരു ടാസ്ക്കിന്റെ സമയപരിധി പാലിക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലെ വിഭവ പങ്കിടൽ പ്രശ്നവും ഞങ്ങൾ പരിശോധിച്ചു തുടർന്ന് വിഭവ പങ്കിടൽ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രോട്ടോക്കോളുകളും പരിശോധിച്ചു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉണ്ടാകുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചചെയ്യപ്പെടും അതിനുശേഷം യുണിക്സ് തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നും യുണിക്സ് അതേപടി ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് എങ്ങനെ വിപുലീകരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും തത്സമയ മുൻഗണന നിലകൾക്കുള്ള പിന്തുണയാണ് ഏറ്റവും നിർണായകമായ ആവശ്യകത തത്സമയ മുൻഗണന ലെവലിൽ ഒരിക്കൽ പ്രോഗ്രാമർ ടാസ്ക്കുകൾക്ക് മുൻഗണന നൽകിയാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് മാറ്റില്ല അതിനാൽ ഇവ സ്റ്റാറ്റിക് മുൻഗണന നിലകളാണ് പക്ഷെ നമ്മളെപ്പോലെ പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ടാസ്ക്കുകളുടെ മുൻഗണനയെ ചലനാത്മകമായി മാറ്റുന്നുവെന്ന് ഞങ്ങൾ നിരീക്ഷിക്കും ഏതൊരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും കേന്ദ്ര ആവശ്യകതകളിലൊന്നാണ് തത്സമയ ടാസ്ക് ഷെഡ്യൂളിംഗ് നയം ശരിയായ വിഭവ പങ്കിടൽ പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കാതെ തന്നെ പ്രിയോറിറ്റി ഇൻവെർഷൻസ് ഉണ്ടാകാം ടാസ്ക്കുകൾക്ക് അവരുടെ സമയപരിധി നഷ്ടപ്പെടാം

കുറഞ്ഞ ടാസ്ക് പ്രീഎമ്പ്ഷൻ മില്ലി അല്ലെങ്കിൽ മൈക്രോസെക്കൻഡുകളുടെ സമയങ്ങളിൽ ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് തയ്യാറാകുമ്പോൾ നിർവ്വഹിക്കുന്ന കുറഞ്ഞ മുൻഗണനാ ജോലികൾ മുൻകൂട്ടി നിശ്ചയിക്കണം ഈ പ്രീഎമ്പ്ഷൻ സമയം മില്ലി അല്ലെങ്കിൽ മൈക്രോസെക്കൻഡുകളുടെ ക്രമമാണ് ഒരുതവണ തടസ്സം സംഭവിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്ന ലേറ്റൻസി ആവശ്യകതകൾക്കായി അത് തിരിച്ചറിയുകയും ചില ചെറിയ സമയത്തിനുള്ളിൽ ഇന്ററപ്റ്റ് സർവീസിംഗ് നടത്തുകയും വേണം അധിക ആവശ്യകതകളും തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും മെമ്മറി ലോക്കിങ്ങിനു പിന്തുണയാണ് കാരണം ഒരു വെർച്വൽ മെമ്മറി സിസ്റ്റത്തിൽ പേജ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് മാറ്റിസ്ഥാപിക്കപ്പെടും അതിനാൽ ഒരു പേജ് തകരാർ സംഭവിക്കുമ്പോൾ അതിന് വളരെയധികം സമയമെടുക്കുകയും ജിറ്ററുകൾ അവതരിപ്പിക്കുകയും ചെയ്യാം പിന്നീട് ചർച്ചചെയ്യപ്പെടും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ആവശ്യകതകളിലൊന്നായതിനാൽ ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി പ്രവർത്തിക്കുന്നത് മെമ്മറി ലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു പിന്തുണയാണ് മാത്രമല്ല ഈ ലോക്ക് ചെയ്ത പേജുകൾ പേജ് സ്വാപ്പിംഗിന് വിധേയമാകില്ല ടൈമറുകൾക്കുള്ള പിന്തുണ അതായത് ആനുകാലിക ടൈമറുകളും വൺ സെറ്റ് ടൈമറുകളും ഉയർന്ന കൃത്യതയുള്ള ടൈമറുകളും ഇവ തത്സമയ അപ്ലിക്കേഷനുകൾ എഴുതുന്നതിന് പതിവായി ആവശ്യമാണ് ഇവ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്തുണയ്ക്കേണ്ടതുണ്ട് ഡെസ്കിന് കീഴിൽ ഇടം ലഭ്യമാകുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കി ബ്ലോക്കുകൾ എഴുതിയതിനാൽ തത്സമയ ഫയൽ സിസ്റ്റം പരമ്പരാഗത ഫയൽ സിസ്റ്റത്തെ പിന്തുണയ്ക്കുന്നു എന്നാൽ ബ്ലോക്കുകൾ തുടർച്ചയായി എഴുതിയ തത്സമയ ഫയൽ സിസ്റ്റത്തിൽ അത് ആശ്രയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഡെസ്കിൽ സ്ഥിതിചെയ്യുന്ന സ്ഥലങ്ങളുടെ ആക്സസ്സ് സമയം അതിനാൽ ബ്ലോക്കുകളിലേക്കുള്ള ആക്സസ്സ് സമയം പ്രവചനാതീതമായിത്തീരുന്നു അതിനാൽ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപകരണ ഇന്റർഫേസിംഗ് സുഗമമാക്കണം കാരണം തത്സമയ സിസ്റ്റങ്ങളിൽ പലതും നിരവധി സെൻസറുകൾ ആക്യുവേറ്ററുകൾ കൂടാതെ പലതും ഉൾക്കൊള്ളുന്നു ഒരു പുതിയ തരം സെൻസർ അല്ലെങ്കിൽ ആക്യുവേറ്റർ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം മാറ്റിയെഴുതേണ്ടതില്ല ഈ ഉപകരണങ്ങൾക്കായുള്ള ഉപകരണ ഡ്രൈവറുകൾ ഉൾപ്പെടുത്താൻ കഴിയണം മാത്രമല്ല ഇവ ശരിക്കും സിസ്റ്റം ഷട് ഡൌൺ ചെയ്യുകയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വീണ്ടും കംപൈൽ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല തത്സമയ മുൻഗണന നില ഒരു സ്റ്റാറ്റിക് മുൻഗണന നിലയെ സൂചിപ്പിക്കുന്നു അതായത് പ്രോഗ്രാമർ ഒരു ടാസ്ക്കിന് മുൻഗണന നൽകിയാൽ അത് മാറരുത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രോഗ്രാമർ നൽകിയ മുൻഗണന മാറ്റരുത് മറുവശത്ത് ഡൈനാമിക് മുൻഗണന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടാസ്ക്കുകളുടെ മുൻഗണന നില മാറ്റിക്കൊണ്ടിരിക്കും എല്ലാ പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഓരോ തവണയും ടാസ്ക്കിന്റെ മുൻഗണന മാറ്റിക്കൊണ്ടിരിക്കും പ്രധാന കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് ടാസ്ക് ഷെഡ്യൂളർ ഏതൊരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും കേന്ദ്ര വശമാണെന്ന് ഞങ്ങൾ കണ്ടതിനാൽ തൽസമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ ആദ്യകാല ഡെഡ്ലൈൻ ഫസ്റ്റ് ഷെഡ്യൂളർ മറ്റ് ഇഷ്ടാനുസൃത ടാസ്ക് ഷെഡ്യൂളറുകൾ എന്നിവ പോലുള്ള ടാസ്ക് ഷെഡ്യൂളർമാരെ പിന്തുണയ്ക്കണം റിസോഴ്സ് ഷെറിങ് പിന്തുണക്കേണ്ടതുണ്ട് കാരണം ഏതൊരു അപ്രധാന അപ്പ്ലിക്കേഷനിലെയും ടാസ്കുകൾക് റിസോഴ്സ് പങ്കിടേണ്ടി വരും ഉദാഹരണത്തിന് ഒരു ടാസ്ക്കിന്റെ ഫലങ്ങൾ മറ്റൊരു ടാസ്ക്കിലേക്ക് കൈമാറേണ്ടതുണ്ട് അവർ ഇതിനു ഒരു ഷെയേർഡ് മെമ്മറി അല്ലെങ്കിൽ ഒരു ഷെയേർഡ് ഡിവൈസ് ഉപയോഗിച്ചേക്കാം പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലെ റിസോഴ്സ് പങ്കിടലിനുള്ള പരിഹാരം ആയ സെമഫോറുകൾ പ്രിയോറിറ്റി ഇൻവെർഷൻസ് ലേക്കും അൺ ബൌന്ദേദ് പ്രിയോറിറ്റി ഇൻവെർഷൻ ലേക്കും നയിക്കുന്നതായി ഞങ്ങൾ കണ്ടു പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ പിന്തുണയ്ക്കാൻ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമുണ്ടെന്ന് കണ്ടു അതിനാൽ പ്രിയോറിറ്റി ഇൻവെർഷൻസ് പ്രശ്നം കാരണം ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക്കുകൾ അവരുടെ സമയപരിധി നഷ്ടപ്പെടുത്തുന്നില്ല ടാസ്ക് പ്രീപെൻഷൻ സമയം കുറഞ്ഞതും പരിമിതപ്പെടുത്തേണ്ടതുമാണ് ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് തയ്യാറാകുമ്പോൾ കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് കോണ്ടെസ്റ് സ്വിച്ച് ചെയ്യണം ഉയർന്ന മുൻഗണനാ ചുമതല മൈക്രോസെക്കൻഡ്സ് ഓർഡറിൽ റൺ ചെയ്യണം കാരണം അതിന്റെ സമയപരിധി നൂറു കണക്കിന് മൈക്രോസെക്കണ്ട ആണ് അതിനാൽ ടാസ്ക് പ്രീഎമ്പ്ഷൻ സമയം നൂറുകണക്കിന് മൈക്രോസെക്കൻഡുകളോ നിരവധി മില്ലിസെക്കൻഡുകളോ ആണെങ്കിൽ തത്സമയ ടാസ്കുകൾക്ക് സമയപരിധി നഷ്ടമാകാൻ സാധ്യതയുണ്ട് അടുത്ത പ്രഭാഷണത്തിൽ യുണിക്സിനെ ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഞങ്ങൾ ചർച്ച ചെയ്യും പ്രധാന പ്രശ്നം യുണിക്സിലെ ടാസ്ക് പ്രീഎമ്പ്ഷൻ സമയം സെക്കൻഡ്സിന്റെ ക്രമത്തിലാണെന്നും ഒരു ഹാർഡ് തത്സമയ ടാസ്ക്കിന് 100 മൈക്രോസെക്കന്റിന്റെ സമയപരിധി ഉണ്ടെങ്കിൽ ടാസ്ക് പ്രീഎമ്പ്ഷൻ സമയം തന്നെ ഒരു സമയപരിധി നഷ്ടപ്പെടുത്താൻ പോകുന്നുവെന്നും ആണ് എന്നാൽ യുണിക്സ് പോലുള്ള പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ച് ഒരു സെക്കൻഡിൽ ഇത്രയും ഉയർന്ന ടാസ്ക് പ്രീഎമ്പ്ഷൻ സമയം ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നു ഒരു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേർണൽ പ്രീഎംറ്റീവ് അല്ലാത്തതും പ്രീഎംറ്റീവ് അല്ലാത്ത മാർഗ്ഗങ്ങൾ വഴി ഒരു തടസ്സം സംഭവിക്കുമ്പോൾ കേർണൽ അത് നൽകുന്നതും ഇല്ല യഥാർത്ഥത്തിൽ കേർണൽ മോഡിലായിരിക്കുമ്പോൾ കേർണൽ അപ്രാപ്തമാക്കുന്നു കേർണൽ ദിനചര്യകൾ നടപ്പിലാക്കുമ്പോൾ കേർണലിന് എല്ലാ തടസ്സങ്ങളും പ്രവർത്തനരഹിതമാക്കേണ്ടിവരുന്നത് എന്തുകൊണ്ടാണെന്നും ഇത് ഒരു നിമിഷം ആയിരിക്കേണ്ടതെന്താണെന്നും വീണ്ടും ചോദ്യം ഉയർന്നുവരുന്നു പ്രീഎംപ്റ്റീവ് അല്ലാത്ത കേർണൽ മൂലമാണ് വലിയ പ്രീഎംപ്ഷൻ സമയം കേർണൽ ദിനചര്യകൾ നടപ്പിലാക്കുമ്പോൾ കേർണൽ തടസ്സങ്ങൾ അപ്രാപ്തമാക്കുന്നു കൂടാതെ ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇന്ററപ്റ്റ് ലേറ്റൻസി ആവശ്യകതകളും ഉണ്ട് ഇന്ററപ്റ്റ് ലേറ്റൻസി വഴി ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഒരു തടസ്സം സംഭവിക്കുമ്പോഴും ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ ആ തടസ്സത്തിനായി പ്രവർത്തിക്കുമ്പോഴും സമയം ചെറുതും പരിമിതവുമായിരിക്കണം ഒരു ഘട്ടത്തിൽ ഒരു തടസ്സം സംഭവിക്കുന്ന ഡയഗ്രം ചുവടെ ചേർക്കുന്നു ഈ തടസ്സം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരിച്ചറിഞ്ഞു തുടർന്ന് ഇത് കുറച്ച് പ്രോസസ്സിംഗ് നടത്തുന്നു ഉദാഹരണത്തിന് ഒരേസമയത്തുള്ള രജിസ്റ്ററുകൾ സംരക്ഷിച്ചതിന് ശേഷം അത് ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ പ്രവർത്തിപ്പിക്കുന്നു അങ്ങനെ ഇന്ററപ്റ്റ് സംഭവിക്കുന്ന സമയ പോയിന്റോ അല്ലെങ്കിൽ ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻകൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്തെയോ ഞങ്ങൾ അതിനെ ഇന്ററപ്റ്റ് ലേറ്റൻസി സമയം എന്ന് വിളിക്കുന്നു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഈ സമയം ഒരു സെക്കന്റിന്റെ ക്രമത്തിൽ വലുതാണ് എന്നാൽ ഒരു തത്സമയം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ സമയം കുറച്ച് മൈക്രോസെക്കൻഡുകളുടെ ക്രമത്തിലായിരിക്കണം കൂടാതെ ഇന്ററപ്റ്റ് ലേറ്റൻസിയുടെ പരിധി നിർണ്ണായകമായിരിക്കണം അതായത് പരിധി 10 മില്ലിസെക്കൻഡാണെന്നും ഒരു കാരണവശാലും അത് 10 മില്ലിസെക്കൻഡിൽ കവിയണമെന്നും ഇന്ററപ്റ്റ് ലേറ്റൻസി സമയത്തെ നിർണ്ണായക പരിധി നൽകിയിരിക്കുന്നു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത്രയും കുറഞ്ഞ ഇന്ററപ്റ്റ് ലേറ്റൻസി എങ്ങനെയാണ് നേടുന്നതെന്ന് ഒരാൾ ചിന്തിച്ചേക്കാം കാരണം ഒരു ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻകൾ പ്രവർത്തിക്കുമ്പോൾ ഇതിന് നിരവധി മൈക്രോസെക്കന്റുകൾ എടുക്കാം അതേസമയം മറ്റൊരു തടസ്സം സംഭവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകും അത് കാത്തിരിക്കേണ്ടതുണ്ട് പല തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും കുറഞ്ഞ ഇന്ററപ്റ്റ് ലേറ്റൻസി നേടുന്നതിനുള്ള മാർഗ്ഗം തടസ്സപ്പെടുത്തിയ ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻകൾ മിക്കതും ഒരു ടെഫേർഡ് പ്രോസിഡർ കാൾ ആയി മറ്റേതൊരു ജോലിയും പോലെ പ്രവർത്തിക്കുന്നു ഇത് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് പോലെ ടെഫേർഡ് പ്രോസിഡർ കാൾ എന്ന് വിളിക്കുന്നു ഒരു ഇൻട്രപ്ട് സംഭവിച്ചയുടൻ പ്രവർത്തിക്കുന്ന കോഡ് വളരെ ചെറിയ ഒരു കോഡാണ് അത് ടെഫേർഡ് പ്രോസിഡർ കാൾ സൃഷ്ടിക്കുകയും അത് ക്യൂവാക്കുകയും ചെയ്യുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞ ഇന്ററപ്റ്റ് ലേറ്റൻസി നേടാൻ ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതികതയാണിതെന്ന് കാണാം പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം കേർണൽ മുൻകരുതൽ ആകണം എന്ന് മാത്രമല്ല അതായത് കേർണൽ മോഡിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേർണൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കേർണൽ കോഡ് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയും ഇവിടെ നെസ്റ്റഡ് ഇന്ററപ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയണം അതായത് സർവീസ് റൂട്ടിൻസ് തടസ്സപ്പെടുമ്പോൾ കൂടുതൽ തടസ്സങ്ങൾ തിരിച്ചറിയുകയും അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയുകയും വേണം മെമ്മറി മാനേജുമെന്റിനായി ആവശ്യകതകൾ ഉണ്ട് ഉദാഹരണത്തിന് വെർച്വൽ മെമ്മറി സിസ്റ്റത്തിലും മെമ്മറി പരിരക്ഷണ സവിശേഷതകളിലും മെച്ചപ്പെടുത്തൽ ആവശ്യമാണ് ടാസ്ക് വലുപ്പം ചെറുതായ വളരെ ചെറിയ ഉൾച്ചേർത്ത തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ വളരെ കുറച്ച് ടാസ്ക്കുകൾ മാത്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓവർഹെഡ് വളരെ ചെറുതായിരിക്കണം ഇവിടെ കാൽപ്പാടുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വലുപ്പം ചെറുതായിരിക്കണം തുടർന്ന് വിർച്വൽ മെമ്മറിപിന്തുണയ്ക്കുന്നില്ല മെമ്മറി പരിരക്ഷണ സവിശേഷത പോലും അതായത് ഒരു ടാസ്ക്കിന് മനപൂർവ്വം മറ്റൊരു ടാസ്ക്കിന്റെ ഫലങ്ങൾ തിരുത്തിയെഴുതാൻ കഴിയുമോ അല്ലെങ്കിൽ മറ്റൊരു ടാസ്ക്കിന്റെ കോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉറപ്പു നൽകുന്നില്ല കാരണം ഇതിന് അധിക ഓവർഹെഡ് ആവശ്യമായി വരും മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വളരെ ചെറിയ വലുപ്പം മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ഉൾച്ചേർത്ത പല തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും വെർച്വൽ മെമ്മറി മെമ്മറി പരിരക്ഷണ സംവിധാനങ്ങളെ ശരിക്കും പിന്തുണയ്ക്കുന്നില്ല എന്നാൽ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഉദാഹരണത്തിന് ഉൾച്ചേർത്ത ഇതര ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ വലിയ സങ്കീർണമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് താങ്ങാനാവുന്ന ഏതെങ്കിലും ഉൾച്ചേർത്ത ആപ്ലിക്കേഷനുകൾ ഇവിടെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തെങ്കിലും ചെയ്യുക എന്നതാണ് അതിനാൽ ഏറ്റവും മോശം മെമ്മറി ആക്സസ് സമയം ഗണ്യമായി വർദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ മെമ്മറി ആക്സസ് എഡിറ്റർ ഉണ്ടാകും മെമ്മറി ആക്സസ് എഡിറ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡാറ്റ ചിലപ്പോൾ വളരെ വേഗത്തിൽ ലഭിക്കുകയും ചിലപ്പോൾ ഗണ്യമായ കാലതാമസത്തിന് ശേഷം ലഭിക്കുകയും ചെയ്താൽ ഒരു വിർച്വൽ മെമ്മറി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആക്സസ് സമയത്തിലെ വ്യതിയാനത്തെ ജിറ്റർ എന്ന് വിളിക്കുന്നു പേജ് മെമ്മറിയിലോ കാഷെയിലോ ആണെങ്കിൽ ആക്സസ് സമയം വളരെ വേഗതയുള്ളതും ഡാറ്റ വളരെ വേഗത്തിൽ പ്രോസസ്സർ നേടുന്നതുമാണ് എന്നാൽ പേജ് ലഭ്യമല്ലെങ്കിൽ മെമ്മറിയും പേജ് തകരാറും സംഭവിക്കുന്നു തുടർന്ന് ഹാർഡ് ഡിസ്ക് ആക്സസ് ചെയ്യേണ്ടതുണ്ട് കൂടാതെ ആക്സസ് സമയം പ്രധാന മെമ്മറിയിൽ ലഭ്യമായതിനേക്കാൾ നൂറുകണക്കിന് വലുതായിത്തീരും അടുത്തതായി അത്തരം മെമ്മറി ആക്സസ് എഡിറ്റർ സമയം തടയാൻ എന്തെങ്കിലും ചെയ്യുക എന്നതാണ് അല്ലാത്തപക്ഷം ഇത് ടാസ്ക്കുകളുടെ സമയപരിധി നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കും വെർച്വൽ മെമ്മറി ശരാശരി മെമ്മറി ആക്സസ് സമയം കുറയ്ക്കാൻ സഹായിക്കുന്നു പക്ഷേ ഏറ്റവും മോശം മെമ്മറി ആക്സസ് സമയം കുറയുന്നു കാരണം പേജ് ഒരു മെമ്മറിയിൽ ലഭ്യമല്ലെങ്കിൽ ഒരു പേജ് തകരാർ സംഭവിക്കുകയും അത് ഹാർഡ് ഡിസ്കിൽ നിന്നും പേജ് പിശകുകളിൽ നിന്നും നേടുകയും വേണം കാര്യമായ ലേറ്റൻസി ഉണ്ടാകുന്നു പക്ഷേ വിർച്വൽ മെമ്മറിക്ക് അവ്യക്തമായ അല്ലെങ്കിൽ ഉപോൽപ്പന്നമെന്ന നിലയിൽ മെമ്മറി പരിരക്ഷയുണ്ട് എല്ലാ വിർച്വൽ മെമ്മറി സിസ്റ്റങ്ങളും മെമ്മറി പരിരക്ഷണ സവിശേഷതയെ പിന്തുണയ്ക്കുന്നു ഓരോ ജോലിക്കും മെമ്മറിയുടെ ഭാഗങ്ങൾ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ കമ്പ്യൂട്ടറിൽ താമസിക്കുന്ന എല്ലാ ഡാറ്റയും ഉള്ള മെമ്മറി സ്പെയ്സ് ആക്സസ്സു ചെയ്യാൻ ഇതിന് കഴിയില്ല ഇത് മെമ്മറി പരിരക്ഷണ സവിശേഷത എന്നറിയപ്പെടുന്നു ചില കാരണങ്ങളാൽ വിർച്വൽ മെമ്മറി പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ചെറിയ ഉൾച്ചേർത്ത സിസ്റ്റമായിരിക്കേണ്ടതും ഒരു വിർച്വൽ മെമ്മറി സിസ്റ്റത്തെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല മെമ്മറി പരിരക്ഷ ഒരു പ്രശ്നമായിത്തീരുന്നു കാരണം ഇത് കൂടാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡിൽ ഒരു പിശക് ഉണ്ടെങ്കിൽ അത് ഡീബഗ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൂടാതെ മെമ്മറി പരിരക്ഷയില്ലാത്തപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് അമിതമായി എഴുതുകയും അത് തകരാറിലാകുകയും ചെയ്യുന്നു തുടർന്ന് കൃത്യമായി എവിടെയാണ് പുനരാലേഖനം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല കൂടാതെ വിർച്വൽ മെമ്മറി പിന്തുണയില്ലാതെ മെമ്മറി വിഘടനം ഒരു പ്രശ്നമായിത്തീരുന്നു സ്വാഭാവികമായും വെർച്വൽ മെമ്മറിയെ പിന്തുണയ്ക്കുന്ന തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ തരങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം ഉയരുന്നു ടാസ്ക്കുകൾക്ക് വലിയ ഡാറ്റ ആവശ്യമായി വരുമ്പോൾ അല്ലെങ്കിൽ കോഡിന് ഭാരമേറിയ ഭാരം വലിയ കോഡുകളായ അല്ലെങ്കിൽ ഒരു വലിയ ഡാറ്റ ആവശ്യമുള്ള തത്സമയ ടാസ്ക്കുകളുടെ മെമ്മറി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ ലൈനുകൾ ഉള്ളപ്പോൾ അത് ആവശ്യമാണ് ടെക്സ്റ്റ് എഡിറ്റർ ഇമെയിൽ ക്ലയന്റ് വെബ് ബ്രൌസറുകൾ മുതലായ ഞങ്ങളുടെ സിസ്റ്റത്തിൽ തത്സമയമല്ലാത്ത ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ടെങ്കിൽ വെർച്വൽ മെമ്മറിയെ പിന്തുണയ്ക്കേണ്ടത് ആവശ്യമാണ് മെമ്മറി പരിരക്ഷയിൽ ഓരോ ടാസ്ക്കിനും അതിന്റേതായ അഡ്രസ് സ്പേസ് ഉണ്ട് ഒപ്പം ഒരു ടാസ്ക്കിന് മറ്റൊരു ടാസ്ക്കിന്റെ അഡ്രസ് സ്പേസ് ആ ക്സസ് ചെയ്യാൻ കഴിയില്ല അത് മെമ്മറി പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉറപ്പാക്കുന്നു മെമ്മറി പരിരക്ഷയില്ലാത്തപ്പോൾ എല്ലാ ജോലികളും ഒരേ അഡ്രസ് സ്പേസിൽ പ്രവർത്തിക്കുന്നു ഒരൊറ്റ അഡ്രസ് സ്പേസ് ഉണ്ടായിരിക്കുന്നതിന്റെ പ്രയോജനം അത് കാര്യക്ഷമമാണ് പ്രൊട്ടക്ഷൻ ബിറ്റുകൾ പരിശോദിക്കണ്ട ആവശ്യം ഇല്ല മാത്രമല്ല ഇത് ഉറപ്പാക്കാൻ ആവശ്യമായ മെമ്മറി ബിറ്റുകളിൽ അത് സേവ് ചെയുകയും ചെയുന്നു അതിനാൽ കോളുകൾ ഭാരം കുറഞ്ഞതായി മാറുന്നു അത് കാര്യക്ഷമമാണ് മാത്രമല്ല ഇതിന് കുറവ് മെമ്മറി ആവശ്യമാണ് ഒന്നോ രണ്ടോ ടാസ്കുകൾ മാത്രമുള്ള ചെറിയ എംബെഡഡ് അപ്പ്ലിക്കേഷനുകൾക് മെമ്മറി പരിരക്ഷ ഒഴിവാക്കാം പ്രോഗ്രാമ്മറിന് എളുപ്പത്തിൽ മാനേജ് ചെയ്യാം എന്നാൽ കൂടുതൽ ടാസ്കുകൾ ഉള്ള അപ്പ്ലിക്കേഷനുകൾക് മെമ്മറി പരിരക്ഷ ഇല്ലാതെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ ചെറിയ മെമ്മറിയും ചെറിയ ടാസ്കുകളും ഉള്ള അപ്പ്ലിക്കേഷനുകൾക് മെമ്മറി പരിരക്ഷ ഓവർ ഹെഡ് സ്വീകാര്യമല്ല മെമ്മറി പരിരക്ഷ ഇല്ലാതെ പോലും പ്രോഗ്രാമർക്ക് ആപ്ലിക്കേഷൻ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ മെമ്മറി പരിരക്ഷ ഇല്ലാത്ത വല്യ അപ്പ്ലിക്കേഷനുകളുടെ നിർമാണ ചെലവ് കൂടും കാരണം ഡീബഗ്ഗിങ് കൂടുതൽ കഠിനം ആകുകയും ഒരു ടാസ്കിനു മറ്റു ടാസ്കുകളുടെ കോഡോ ടാറ്റയോ ഓവർ റൈറ്റ് ചെയാനുമാകും മാത്രമല്ല അറ്റകുറ്റപ്പണിചെലവ് വർദ്ധിക്കുകയും പിന്നീട് എന്തെങ്കിലും മാറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അപ്ലിക്കേഷൻ മാറ്റാനും ബുദ്ധിമുട്ടായിരിക്കും വെർച്വൽ മെമ്മറിയെ ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്തുണയ്ക്കുന്നുവെങ്കിൽ മെമ്മറി ലോക്കിംഗ് സവിശേഷത ആവശ്യമാണ് മെമ്മറി ലോക്കിംഗ് സവിശേഷതയിൽ പ്രോഗ്രാമർക്ക് ഒരു മെമ്മറി പേജ് ലോക്കു ചെയ്യാനാകും പേജ് മെമ്മറിയിൽmemory0 നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്നതിൽ നിന്ന് ഇത് തടയുന്നു അതിനാൽ മെമ്മറി ആക്സിസിലെ ജിറ്റർ കുറയ്ക്കുന്നു മെമ്മറി ലോക്കിം പിന്തുണയുടെ അഭാവത്തിൽ നിർണായക ചുമതലയിൽ പോലും വലിയ മെമ്മറി ആക്സസ് ജിറ്റർ ഉണ്ടാകാം അതിനാൽ ഷെഡ്യൂളിംഗ് ചുമതലകൾ കോൺസെർവടിവ് ആയിരിക്കണം മെമ്മറി ആക്സസ് ജിറ്റർ മൂലം ടാസ്ക്കുകളുടെ സമയപരിധി നഷ്ടപ്പെടാം തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കും അസിൻക്രൊന്സ് I O പിന്തുണയ്ക്കേണ്ടതുണ്ട് പരമ്പരാഗത I O ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സിൻക്രണസ് ആണ് അത് ഫലം കാത്തിരിക്കുന്ന സമയത്ത് പ്രക്രിയ തടഞ്ഞു ഉദാഹരണത്തിന് ഒരു വേഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ചെയ്യുന്നു ഇനി ഫയൽ സേവ് ചെയ്യണം ചെയ്യുന്ന സമയത് നമുക്കു എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം അത് ഒരു സിൻക്രൊന്സ് കാൾ ആണ് എന്നാൽ ഒരു സേവ് കമാൻഡ് നൽകുയും അതെ സമയം തന്നെ നമുക്കു എഡിറ്റിംഗ് തുടങ്ങിയ മറ്റു ജോലികൾ ചെയ്യാനും കഴിയുക ആണെങ്കിൽ അത് അസിൻക്രൊൻസ് IOasynchronous IO ആണ് അതിനെ നോൺ ബ്ലോക്കിങ് IO എന്ന് പറയാം നമുക്ക് IO ആരംഭിക്കാനും തുടർന്ന് പ്രവർത്തനം തുടരാനും അസിൻക്രണസ് IO റീഡ്asynchronous IO read അയോറെഡ് aioread അസിൻക്രണസ് IO റൈറ്റ്asynchronous IO write അയോ റൈറ്റ് aio−writeപോലുള്ളവ വിളിക്കാനും കഴിയും ഇവഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്തുണയ്ക്കേണ്ടതുണ്ട് കാരണം IO സാധാരണ മന്ദഗതിയിലാണെങ്കിൽ IOകാരണം ഒരു ടാസ്ക് പ്രോസസ്സ് തടയേണ്ടതുണ്ട് അതിനുശേഷം അതിന്റെ സമയപരിധിയും നഷ്ടപ്പെടാം അസിൻക്രൊൻസ് IOasynchronous IO യുടെ പിന്തുണയില്ലാതെ ഒരു തത്സമയ ടാസ്ക് പ്രോഗ്രാം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്I എംബഡ് ചെയ്ത സിസ്റ്റങ്ങൾക്കായി തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഫുട്പ്രിന്റ് എന്ന് അറിയപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ വലുപ്പം വളരെ ചെറുതായിരിക്കണം ഉൾച്ചേർത്ത ആപ്ലിക്കേഷനുകൾക്ക് അഭികാമ്യമായ മറ്റൊരു സവിശേഷത പവർ സേവിംഗ് സവിശേഷതയാണ് ലോഡ് ഉയർന്നപ്പോൾ പ്രോസസ്സർ പ്രവർത്തിപ്പിക്കുന്ന പവർ ലോ ഫ്രീക്വൻസി മോഡിൽ സംരക്ഷിക്കുന്നതിനുള്ള ചുമതല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റെടുക്കുകയും ലോഡ് ഉയർന്നപ്പോൾ പ്രോസസർ ഭാഗം സ്വിച്ച് ഓഫ് ചെയ്യുകയും അങ്ങനെ പവർ സംരക്ഷിക്കുകയും ചെയ്യണം ഈ പ്രഭാഷണത്തിൽ ഒരു തത്സമയം അല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ വേർതിരിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പരിശോധിക്കുകയുംതത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നതിന് ഒരു ഡസനോളം സവിശേഷതകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്നതിനും ഈ വശങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പരമ്പരാഗത യുണിക്സ് ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കും ഈ പ്രശ്നങ്ങളുടെ ഉത്ഭവം ചർച്ചചെയ്യപ്പെടും കാരണം ഈ പ്രശ്നങ്ങൾ നന്നായി അറിയില്ലെങ്കിൽ ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കാൻ കഴിയില്ല

ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി യുണിക്സ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുംഈ പ്രഭാഷണത്തിൽ തിരിച്ചറിഞ്ഞ ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്തുണയ്ക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും യുണിക്സ് തൃപ്തികരമായി പിന്തുണയ്ക്കുന്നില്ല രണ്ടു പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒന്ന് പ്രീ എംപ്റ്റബ്ൾ അല്ലാത്ത കെർണൽ അത് ഉണ്ടാകുന്നത് യൂനിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് റൺ ചെയുമ്പോൾ ആണ് അപ്പോൾ ഇന്റെര്പ്ട് അപ്രാപ്തമാക്കി രണ്ടാമതായി ഡൈനാമിക് പ്രിയോറിറ്റി ലെവലുകൾ ഒരു ടാസ്ക്കിന് പ്രോഗ്രാമർ മുൻഗണന നൽകിയാലുംഓരോ സമയ സ്ലൈസിന്റെയും അവസാനം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് മാറ്റിക്കൊണ്ടിരിക്കും ഒരു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും ഒരു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ പ്രശ്നങ്ങൾ ആദ്യം നിലനിൽക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്നും മനസിലാക്കുന്നതിനുള്ള നിർണായക പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ചചെയ്തു ഇതോടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയും അടുത്ത ഘട്ടത്തിൽ തുടരുകയും ചെയ്യും നന്ദി